ഈ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നലെ കഴിഞ്ഞ അദ്ധ്യായത്തിൽ നമ്മൾ കുറച്ചു ഉപകരണങ്ങളെ പറ്റി രേഖപ്പെടുത്തുകയുണ്ടായി അതുപോലെ തന്നെ അവയുടെ പ്രവർത്തനത്തെപ്പറ്റിയും പഠിച്ചു അല്ലേ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബ്രെഡ് ബോർഡ് ഡിവൈസ് പരിചയപ്പെടുത്തി തരുകയും അതിൻറെ വിശദാംശങ്ങളെ പറ്റിയും പറഞ്ഞുതന്നു ശരിയല്ലേ അതുകൊണ്ട് പെട്ടെന്നുതന്നെ നമുക്കൊന്ന് ഡിസി പവർ സപ്ലൈ യും ഫ്രീക്വൻസി ജനറേറ്ററും സി ആർ ഓ യും ഓസ്സിലോസ്കോപ്പിനെ പറ്റിയും നമുക്ക് ഒന്ന് ഓർത്തെടുക്കാം ഡിസി പവർ സപ്ലൈയിൽ എങ്ങനെ വോൾട്ടേജിനെ വ്യത്യാസപെടുത്താം എന്നും നമ്മൾ പഠിച്ചില്ലേ അതുപോലെതന്നെ ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന സൌകര്യം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഡിസി പവർ സപ്ലൈ യിൽ പ്ലസ് മൈനസ് 15 വോൾട്ട് നൽകാമെന്നും നമ്മൾ പഠിച്ചു എന്നിട്ട് നമ്മൾ പ്രത്യേകമായ ഘടകങ്ങളെയും അവസാനം ബ്രെഡ്ബോഡിനെയും കണ്ടു അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സ് ഇതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്തിൻറെ പ്രയോഗത്തിലാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സിദ്ധാന്ത ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് എന്നാണ് അതായത് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഇൻറെ സവിശേഷതകൾ എന്താണെന്ന് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ സിദ്ധാന്ത ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേഷനിൽ ആംപ്ലിഫയർ ൻറെ പലതരം സവിശേഷതകളെ പറ്റി പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെ സവിശേഷതകളെ അളക്കാം എന്നതിനെപ്പറ്റി ആണ് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് അതിൻറെ സവിശേഷതകൾ എന്നു പഠിക്കാം അതിനോടൊപ്പം തന്നെ സ്ലൈഡുകൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി കാണുമ്പോൾ ക്ലാസ്സിൽ നമ്മൾ എന്തു പഠിച്ചു എന്നു ഒന്നുകൂടി നമുക്ക് ഓർത്തെടുക്കാം എന്നിട്ട് നമുക്ക് പരീക്ഷണം തുടങ്ങാം നമുക്ക് സ്ക്രീനിലേക്ക് നോക്കാം നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ അധ്യാപനം ഓപ്പറേഷണൽ ആംപ്ലിഫയഫയ റിന്റെ സവിശേഷതകൾ മനസ്സിലാക്കുന്ന പരീക്ഷണങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഇൻപുട്ട് ബയാസ് വോൾട്ടേജ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഇൻപുട്ട് ഓഫ്സെറ്റ്കറണ്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റെയിഞ്ച് എന്നിവയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കേന്ദ്രീകരിക്കുന്ന കാര്യങ്ങൾ അതായത് എന്താണ് ഓപ്പറേഷനിൽ ആംപ്ലിഫയർ എന്താണ് അതിൻറെ പ്രധാനപ്പെട്ട പിന്നുകൾ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ണ്ടെങ്കിൽ 5 പ്രധാനപ്പെട്ട പിന്നുകൾ ആണുള്ളത് അതിൽ ഏഴ് പിൻ ഓപ്പറേഷനിൽ ആംപ്ലിഫയർ നിങ്ങൾ ഏതുതരത്തിലുള്ള ഐസി ആണ് ഉപയോഗിക്കുന്നത് എന്നതു അടിസ്ഥാനപ്പെടുത്തി ഇരിക്കും അതായത് സിംഗിൾ ഓപ്പറേഷന് ആംപ്ലിഫയർ ഡബിൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ ക്വാഡ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നിവ ഒരു സിംഗിൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർനെപ്പറ്റി നോക്കാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സിംഗിൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എടുത്താൽ 7 ടെർമിനലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ 23467 എന്നും 15 എന്നും ഒന്ന് രണ്ട് ടെർമിനലുകളും ഉണ്ട് 158 ടെർമിനലുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന നമ്മൾ കണ്ടുകഴിഞ്ഞു അതുകൊണ്ടുതന്നെ വലതുവശത്തുള്ള പോസിറ്റീവ് സപ്ലൈ വോൾട്ടേജ് ടെർമിനലിന് V നമുക്ക് നോക്കാം ഇനി നമുക്ക് ഉള്ളത് രണ്ടാമത്തെ വോൾട്ടേജ് നെഗറ്റീവ് ടെർമിനൽ Vcc ആണ് ഇനി നമുക്കുള്ളത് ഔട്ട്പുട്ട് ടെർമിനലാണ് അതായത് 0 അതുകഴിഞ്ഞ് ഇൻവെർട്ടിങ് ഇൻപുട്ട് ടെർമിനൽ നമ്പർ രണ്ടും നോൺ ഇൻവെർട്ടിങ് ടെർമിനൽ നമ്പർ മൂന്നും ഇതെല്ലാം നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ ശരിയല്ലേ ഇപ്പോൾ ഇൻവെർട്ടിങ് ടെർമിനൽ കാരണം വിപരീതമായ ധ്രുവത്വം ഉണ്ടാകുന്നു എന്നുവെച്ചാൽ ഈ ധ്രുവത്തിൽ ഈ ഘട്ടത്തിൽ ഞാനൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതായത് 0 ഡിഗ്രിയിൽ ഇൻവെർട്ടിങ് ടെർമിനൽ രണ്ടിൽ എനിക്ക് വോൾട്ടേജിൽ ഒരു ഔട്ട്പുട്ട് ഫെയ്സ് ചേഞ്ച് കാണാൻ പറ്റും അല്ലേ അതായത് നിങ്ങൾക്ക് ഒരു ഇൻവെർട്ടിങ് ഇന്പുട്ട് ഇൻവെർട്ടിങ്ടെർമിനൽ ഉണ്ടെങ്കിൽ വിപരീതമായ ധ്രുവത്വം അല്ലെങ്കിൽ ആൻറി ഫെയ്സ് ഔട്ട്പുട്ട് കിട്ടും ഓർക്കുന്നില്ലേ അടുത്തത് എന്താണ് നോൺ ഇൻവെർട്ടിങ് ടെർമിനൽ ആയ മൂന്നിൽ 0 ഡിഗ്രി ഫെയ്സ് ഇൽ ഞാൻ ഒരു വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ എനിക്ക് ഫെയ്സ് ഷിഫ്റ്റ് കിട്ടുകയില്ല അപ്പോൾ എന്താണ് നോ ഫെയ്സ് ഷിഫ്റ്റ് അത് 0 ഡിഗ്രി ആണല്ലേ നമ്മൾ സിദ്ധാന്ത ക്ലാസ്സിൽ കണ്ടതാണല്ലോ എങ്ങനെ നമുക്ക് ഓരോ ഫെയ്സ്സും തിരിച്ചറിയാം എന്ന് ഞാൻ ഒരു വൃത്തം ഉദാഹരണം എടുത്തത് ഓർക്കുന്നുണ്ടോ ഓർക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊന്നു പറഞ്ഞു തരാം എങ്ങനെ ഫെയ്സ് അളക്കാം എന്താണ് 0 ഡിഗ്രി 180 ഡിഗ്രി 360 ഡിഗ്രി എന്നൊക്കെ അപ്പോൾ നമുക്ക് ഒരു വൃത്തത്തെ പറ്റി വിചാരിക്കാം എന്താണ് ഈ ബിന്ദു ഞാൻ പറയുന്നു 0° ഈ ബിന്ദുവാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എന്താണിത് 90° ഇതാണെങ്കിലോ 180° ഇതാണെലോ 360° ഇതാണെങ്കിലോ 0° അതായത് 360° 0° എന്താണ് ഒരേ ബിന്ദു തന്നെയാണ് അതായത് ഇവിടെ ഞാനൊരു സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് അതിൻറെ ഔട്ട്പുട്ട് ഇവിടെ തന്നെ കാണാൻ കഴിയും 0° ഇൽ സിഗ്നൽ കൊടുത്താൽ 360° യിൽ കാണാൻ കഴിയും പൂജ്യവും 360° ഉം ഒന്നുതന്നെയാണ് അതുകൊണ്ട് ഇവിടെ സീറോ ഫെയ്സ് ഷിഫ്റ്റ് ആണ് അപ്പോൾ നമുക്ക് എന്തുപറയാം ഔട്ട്പുട്ട് ഒരേ ധ്രുവത്വം ആണെന്ന് പറയാം ഇതുപോലെ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോവാം ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഫാബ്രിക്കേഷൻ MOSFET എങ്ങനെയാണ് ഫാബ്രിക്കേറ്റഡ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ് ആ പ്രക്രിയ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഫാബ്രിക്കേറ്റഡ് ചെയ്യുന്നത് സിലിക്കൺ ചിപ്പിൽ ആണ് എന്നൊക്കെ ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതാണ് ഇതാണ് സിലിക്കൺ ചിപ്പ് ഓർക്കുന്നില്ലേ ഇല്ലേ മെയിൻ ടെർമിനലിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫൈൻ വയറുകളാണ് ഈ വയറുകളാണ് സിലിക്കൺ ചിപ്പിലേക്ക് കണക്ട് ചെയ്യുന്നത് അവിടെനിന്ന് പ്രധാനപ്പെട്ട ടെർമിനലിലേക്കും കണക്ട് ചെയ്യുന്നത് അങ്ങനെ ഈ ഉപകരണത്തെ എന്ത് ചെയ്യുന്നു പാക്കേജ്ഡ് ആകുന്നു അനുയോജ്യമായ ഒരു കേസിൽ അങ്ങനെ ഇതിനെ നിറയ്ക്കുന്നു എന്തിനാണ് നമ്മൾ ഇത് വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനു എന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഇതൊക്കെ ഒക്കെ ഓർമിക്കാം ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം ഇക്കാര്യം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ ഇൻപുട്ടിൽ ഒരു വോൾട്ടേജ് കൊടുത്താൽ ഔട്ട്പുട്ടിൽ ഇൻവെർട്ടിങ് ടെർമിനൽ ആയതുകൊണ്ട് അതിനു 180 ഡിഗ്രി ഫെയ്സ്ഷിഫ്റ്റ് സംഭവിക്കാം ഞാൻ ഇനി നോൺ ഇൻവെർട്ടിങ് ടെർമിനലിലേക്ക് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഫെയ്സ് ഷിഫ്റ്റ് ഉണ്ടാകില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഇൻപുട്ട് ഇൻവെർട്ടിങ് ടെർമിനലിലേക്ക് ആണ് കൊടുത്തിരുന്നെങ്കിൽ 180 ഡിഗ്രി ഫെയ്സ്ഷിഫ്റ്റ് ഉണ്ടാകുമായിരുന്നു മുൻപത്തെ സ്ലൈഡിൽ കണ്ടതുപോലെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഇൻറഗ്രേറ്റഡ് സർക്യൂട്ടിൽ ഫാബ്രിക്കേറ്റഡ് ചെയ്ത ഇത് ഒരു ഹൈ ഗെയിൻ ആംപ്ലിഫയർ ആണ് അതായത് ഒരുപാട് FET ട്രാൻസിസ്റ്ററുകൾ കൂട്ടിച്ചേർത്തതാണ് ഇപ്പോൾ നമുക്കറിയാം ഓപ്പറേഷണൽ ആംപ്ലിഫയർ നെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ ഒരുപാട് ട്രാൻസിസ്റ്റർ ഉണ്ടെന്നു പറഞ്ഞു MOSFET ട്രാൻസിസ്റ്ററുകൾ ഇപ്പോൾ ആരും തന്നെ BJT സാങ്കേതികവിദ്യ ഉപയോഗിക്കാറില്ല കൂടുതലായും op amps ടെക്നോളജി തന്നെയാണ് തന്നെയാണ് ഉപയോഗിക്കാറ് MOSFET എന്നാൽ സെമികണ്ടക്ടർ ഓക്സൈഡുകളുടെ ട്രാൻസിസ്റ്റർ ആണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൂടുതൽ ട്രാൻസിസ്റ്റർകളും FET ട്രാൻസിസ്റ്ററുകൾ ആണുള്ളത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ട് എങ്കിൽ എന്തായിരുന്നു ഇതിൻറെ പ്രയോഗം ഓഡിയോ ആംപ്ലിഫയർ സിഗ്നൽ ജനറേറ്ററുകൾ സിഗ്നൽ ഫിൽറ്റർ ചെയ്യും ഇതിനെ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഉം അതുപോലെ നമുക്കറിയാവുന്ന പല നല്ല ഉപയോഗങ്ങളും ഉണ്ട് അതിൻറെ നല്ല ഫലങ്ങൾ എന്തൊക്കെയാണെന്നാൽ അതിനു വില കുറവാണു കുറച്ചു പവർ മാത്രേ സ്വീകരിക്കൂ കൂടുതൽ വിശ്വസിക്കുന്നതാണ് ആണ് പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെതന്നെ നല്ല ലാഭമാണ് എന്താണ് ഇന്നത്തെ പരീക്ഷണവുമായി അതിൻറെ ബന്ധം എന്നു നമുക്കറിയാം ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ സവിശേഷതകളെ പറ്റി പഠിക്കുന്നതാണ് ഇന്നത്തെ പരീക്ഷണം അപ്പോൾ എന്തൊക്കെയാണ് സവിശേഷതകൾ ഒരു ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ സവിശേഷതകൾ ഐഡിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാം തികഞ്ഞത് ഉദാഹരണത്തിന് ഐഡിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യനെ എടുക്കുകയാണെങ്കിൽ അയാളിൽ നെഗറ്റിവിറ്റി ഒന്നുമില്ല എല്ലാം എന്താണ് ദൈവികം അതേപോലെ തന്നെയാണ് ഐഡിയിൽ ആംപ്ലിഫയറിന്റെ കാര്യം പറയുമ്പോൾ അനന്തമായ ആയ വോൾട്ടേജ് ഗെയിനിലും അതുപോലെ തന്നെ അനന്തമായ ഇൻപുട്ട് തടസ്സവും 0 ഔട്ട്പുട്ട് തടസ്സവും വേഗത്തിൽ ഉള്ളതും ആയിരിക്കും പക്ഷേ നമ്മൾ ഐഡിയിൽ ആയി ഒരു ആളിനെ കണ്ടെത്തുന്നത് പ്രയാസമാണു അതുപോലെതന്നെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിനെ കണ്ടെത്തുന്നതും ബുദ്ധിമുട്ടാണ് അതിനാൽ നമുക്കാവശ്യമുള്ള സവിശേഷതകൾ നമ്മൾ കണ്ടെത്തുന്ന ആംപ്ലിഫയർ ഇൽ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായി എടുക്കുമ്പോൾ ഐഡിയൽ നോട് ചേർന്നു നിൽക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത്പോലെ എന്തൊക്കെയാണ് ഓപ്പറേഷണൽ അമ്പ്ലിഫീരിന്റെ സവിശേഷതകൾ അനന്തമായ വോൾടേജ് നേട്ടം പക്ഷെ കുറച്ചുകൂടി യഥാർത്ഥമാകുമ്പോൾ ഇതിനോട് അടുത്ത വില ആയിരിക്കും അത്പോലെ തന്നെ അനന്തമായ ഇൻപുട് തടസവും അതുകൊണ്ട് നമുക്ക് എന്താണ് ഇൻപുട് ഇമ്പ്പെടാൻസ് എന്ന് നോക്കാം യഥാർത്ഥത്തിൽ ഒരു ഓപ്പറേഷണൽ അമ്പ്ലിഫീരിന്റെ ഇൻപുട് ഇമ്പ്പെടാൻസ് എന്ന് പറയുന്നത് 10 മുതൽ 12 ohms വരയും ഔ ട്ട്പുട് ഇമ്പ്പെടാൻസ് 0 വുമാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഔട്ട്പുട് ഇമ്പ്പെടാൻസ് 0 അല്ല മറിച്ചു ചെറിയ വില ആണ് അത്കൊണ്ട് തന്നെ അത് അത്രയധികം വേഗത്തിൽ ആയിരിക്കും ഇനി നമ്മൾ ആ ചെറിയ വില ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അത് ഏകദേശം 0 5 നും 20 micro നും ഇടക് 20 volt per microsecond ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഐഡിയൽ ആയ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ സവിശേഷതകൾ നമുക്ക് ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറർ ഇല്ലാത്തത്കൊണ്ട് തന്നെ നമ്മൾ അതല്ല ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് നമുക്ക് ഉള്ളത് നമുക്ക് ഒരു പ്രാക്ടിക്കൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറർ ഉണ്ട് ഞാൻ നിങ്ങൾക് ലെക്ചർ നോട്ട്ടിൽ കാണിച്ച് തന്നതുപോലെ ഇപ്പോൾ നമ്മൾ രണ്ട് സ്വർണ നിയമങ്ങളെ പറ്റി കണ്ടു അല്ലെ ആദ്യത്തേത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ലേക്ക് ഉള്ള ഇൻപുട് എന്താണ് കറന്റ് സ്വീകരിക്കുന്നതുമില്ല ഉൽപാദിപ്പിക്കുന്നതുമില്ല അതായത് ഇൻപുട് കറന്റ് സ്വീകരിക്കുകയോ ഉൽപാദിപ്പിക്കുകുകയോ ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് ആ സർക്യൂട്ടിൽ കറന്റ് കാണില്ല ഇതാണ് ആദ്യത്തെ നിയമം രണ്ടാമത്തേത് വോൾടേജ് ന്റെ വ്യത്യാസം 0 ആക്കാൻ വേണ്ടി ഒപ് അമ്പ്ലിഫീർ നു എന്തും ചെയ്യാം ഇതാണ് നമ്മൾ ഓർമിക്കേണ്ട രണ്ട് നിയമങ്ങൾ അതായത് ഒന്ന് ഇൻപുട് കറന്റ് ഒന്നും സ്വീകരിക്കുന്നില്ലെന്നും ജനിപ്പിക്കുന്നഇല്ലെന്നും അതുപോലെ രണ്ട് വോൾടേജ് ഇൻപുട് നു ഇടക് ഉള്ള വ്യത്യാസം 0 ആകണം എന്നും നിങ്ങൾ ഇതൊന്നും ഓർമിക്കുന്നില്ലെങ്കിൽ വിഷമിക്കണ്ട അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ വീണ്ടും ആവർത്തിക്കുന്നത് ഇനി നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയറന്റെ സവിശേഷതകളെ പറ്റി നോക്കാം നമ്മൾ ഇവിടെ കണ്ടതൊക്കെയാണല്ലേ ഓപ്പറേഷണൽ അമ്പ്ലിഫീർ ന്റെ സവിശേഷതകൾ ഓഫസറ്റ് 0 ആയിട്ടുള്ള IC നമ്മൾ കണ്ടു അത്പോലെതന്നെ 2 ഇൻവെർട്ടിങ് 3 നോൺ ഇൻവെർട്ടിങ് ഒക്കെ എന്നാൽ ഇപ്പോൾ ചോദ്യം എന്തെന്നാൽ എന്താണ് പിൻ നമ്പർ 8 ന്റെ കടമ അതാണ് നമ്മൾ കണക്ട് ചെയ്യാത്ത IC എങ്കിൽ എന്തിനാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് എന്താണ് അതിന്റെ ഉപയോഗം ഇത് നിങ്ങൾക് ഉള്ള ചോദ്യം ആണ് അപ്പോൾ എന്താണ് പിൻ നമ്പർ 8 ന്റെ സവിശേഷത എന്നു കണ്ടെത്തുക ഇനി നമുക്ക് ഉള്ളത് പിൻ നമ്പർ 7 4 പിന്നെ Vcc കൂടാതെ ഔട്ട്പുട് 6 ഉം ഓഫിസ്റ്റ് 0 ആകുന്നതിനു 5 ഉം ഇതെല്ലാമാണ് നമ്മൾ സിദ്ധാന്താ ക്ലാസ്സിൽ കണ്ടത് അപ്പോൾ എന്താണ് ഓരോ പിൻ ന്റെയും കടമകൾ ഇന്ന് നമ്മൾ പരീക്ഷണത്തിൽ ഇൻപുട് ഇമ്പ്പെടാൻസ് ഔട്ട്പുട് ഇമ്പ്പെടാൻസ് ഇൻപുട് ബയാസ് കറന്റ് ഇൻപുട് ഓഫസറ്റ് കറന്റ് ഇൻപുട് ഓഫസറ്റ് വോൾടേജ് സ്ലീ റേറ്റ് കോമൺ മോഡ് റെജെക്ഷൻ അംശംബന്ധം കോമൺ മോഡ് ഇൻപുട് വോൾട്ടേജ് ഇതൊക്കെയാണ് പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ കാണുന്നതുപോലെ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻപുട് ഇമ്പ്പെടാൻസ് ആണ് ഐഡിയൽ ഓപ്പറേഷണൽ അമ്പ്ലിഫീർന്റെ കാര്യത്തിൽ ഇൻപുട് ഇമ്പ്പെടാൻസ് അത്രയധികം വലുതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പറയാം ഏറ്റവും അധികം ഉള്ളത് ഇൻപുട് ഇമ്പ്പെടാൻസ് ആണെന്ന് പക്ഷെ ഇപ്പോൾ നിങ്ങൾ എന്റെ കൈയിൽ ഉള്ളതുപോലെ ഒരു ഓപ്പറേഷൻ അമ്പലഫിർ എടുകുകാണെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നമുക്ക് അതിനു എന്ത് കാണാൻ കഴിയും അത്രയധികം വലിയ ഇമ്പ്പെടാൻസ് അത്പോലെ തന്നെ ഒരു ഐഡിയൽ ഓപ്പറേഷണൽ അമ്പ്ലിഫീർന് ഔട്ട്പുട് ഇമ്പ്പെടാൻസ് 0 ആയിരിക്കും എന്നാൽ ഒരു യഥാർത്ഥമായ അമ്പ്ലിഫീർന് ഒരിക്കലും 0 ആയിരിക്കില്ല പൂജ്യത്തിനു അടുത്ത ആയിരിക്കും അപ്പോൾ നമുക്ക് അനന്തമായ നേട്ടം കാണാൻ പറ്റും പക്ഷെ നമ്മൾ കാണുമ്പ്പോലെ ഈ അമ്പ്ലിഫീറിൽ അത്രയും തന്നെ നേട്ടം ഉണ്ടാകില്ല നമുക്ക് ഓരോന്ന് ആയി നോക്കാം ആദ്യത്തേത് നിങ്ങളുടെ ഇൻപുട് ഇമ്പ്പെടാൻസ് അപ്പോൾ എന്താണ് ഇൻപുട് ഇമ്പ്പെടാൻസ് എത്ര തരത്തിൽ ഉള്ള ഇൻപുട് ഇമ്പ്പെടാൻസ് ഉണ്ട് ആദ്യത്തേത് നിങ്ങളുടെ ദിഫ്ഫെരെന്റ്റ്യൽ ഇൻപുട് ഇമ്പ്പെടാൻസ് ആണ് എന്താണ് ദിഫ്ഫെരെന്റ്റ്യൽ ഇൻപുട് ഇമ്പ്പെടാൻസ് ഇൻവെർട്ടിങ് ഉം നോൺ ഇൻവെർട്ടിങ് ഉം ടെർമിനലിനു ഇടക് ഉള്ള ടോട്ടൽ റെസിസ്റ്റൻസിനെ വിളിച്ച പേരാണ് അതായത് എന്താണോ ഇൻവെർട്ടിങ് ഉം നോൺ ഇൻവെർട്ടിങ് ഉം തമ്മിലുള്ള വ്യത്യാസം അതാണ് ദിഫ്ഫെരെന്റ്റ്യൽ ഇൻപുട് ഇമ്പ്പെടാൻസ് എന്താണ് കോമൺ മോഡ് ഇൻപുട് ഇമ്പ്പെടാൻസ് ഇൻപുട് നും ഗ്രൌണ്ട് നും ഇടക് ഉള്ള മൊത്തം റെസിസ്റ്റൻസ് നെ വിളിച്ച പേരാണ് അത് അതായത് ഇതും ഗ്രൌണ്ട്മോ അല്ലെങ്കിൽ നോൺ ഇൻവെർട്ടിങ് ടെർമിനലും ഗ്രൌണ്ടുമോ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ എന്താണ് ഇതും ഗ്രൌണ്ട് തമ്മിലുള്ള റെസിസ്റ്റൻസ് അതാണ് നിങ്ങളുടെ കോമൺ മോഡ് ഇൻപുട് ഇമ്പ്പെടാൻസ് ഇലക്ട്രോണിക് പാഠത്തിൽ നിന്ന് എടുത്ത ഈ സർക്യൂട്ട് നിങ്ങൾ നോക്കുക ആണെങ്കിൽ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട് Vs അല്ലെ ഈ ശ്രോതസ് കാരണമാണ് റെസിസ്റ്റൻസ് ഉള്ളത് അതുകൊണ്ട് Vs എന്നത് ശ്രോതസ്സും Rs എന്ന റെസിസ്റ്റൻസ് ഉം ഇതാണ് അമ്പ്ലിഫീർ ന്റെ ഇൻപുട് ഇമ്പ്പെടാൻസ് z ഇതിനു തുല്യമായ സർക്യൂട്ട് നിങ്ങൾ വരക്കുക ആണെങ്കിൽ Rs ഉം z ഉം സീരീസ് ഇൽ ആണ് ഈ വോൾട്ടേജ് Vin നിങ്ങൾ അളക്കുക ആണെങ്കിൽ എന്താണ് നിങ്ങൾക് ലഭിക്കുന്ന ഫോർമുല Vin സമം Vin എന്ന് ലഭിക്കും അല്ലെ അതായത് ZinRs അല്ലെങ്കിൽ Rs Zin നെ വോൾടേജ് സോഴ്സ് Vs ലേക്ക് അപ്പോൾ ഇതാണ് നിങ്ങളുടെ തുലയമായ സർക്യൂട്ട്ന്റെ ഫോർമുല ഇനി ഇത് എളുപ്പമാണ് ഇവിടെ ഇനി മറ്റൊന്നുമില്ല ഒരു പൊട്ടൻഷ്യൽ ഡിവിടർ സർക്യൂട്ട് മാത്രം നിങ്ങൾക് Zin നേരെ ഒള്ള വോൾടേജ് അളക്കണമെങ്കിൽ Zin Rs Z in Vs എളുപ്പമല്ലേ ഇനി നമുക്ക് ഔട്ട്പുട് ഇൻപെടാൻസ് നോക്കാം അടുത്ത സ്ലൈഡിലേക്ക് പോകാം നമുക്ക് ഇനി അടുത്ത സ്ലൈഡ് ആണ് ഔട്ട്പുട് ഇമ്പ്പെടാൻസ് നിങ്ങൾ ഔട്ട്പുട് ഇമ്പ്പെടാൻസ് നോക്കുക ആണെങ്കിൽ അതെന്താണ് 0 അല്ലേ ഐഡിയൽ ആയിരുന്നെങ്കിൽ അത് 0 ആയേനെ അതായത് ഓപ്പറേഷണൽ ആംപ്ലിഫയർഇൻറെ ഔട്ട്പുട് ടെർമിനൽ നിന്നുള്ള റെസിസ്റ്റൻസ് യഥാർത്ഥത്തിൽ അത് 0 അല്ല വളരെ ചെറിയ വില ആണ് ഔട്ട്പുട് ഇമ്പ്പെടാൻസ് അളക്കാൻ നിങ്ങൾക് തതുല്യമായ ഒരു സർക്യൂട്ട് നിങ്ങൾക് വളരെ വ്യക്തമായ കാണാൻ കഴിയും അമ്പ്ലിഫീർ എന്ന് പറയുന്നത് ഒരു സിഗ്നൽ ജനറേറ്റർ ആണെന്നും ഒരു ഓസ്സിലോസ്കോപ്പ് അല്ലെങ്കിൽ വോൾട്മീറ്റർ ഉണ്ടെന്നും അതേപോലെ ഇന്ന് നമ്മൾ കാണുമ്പോൾ ഒരു സിഗ്നൽ ജനറേറ്റർ ഉണ്ട് സിഗ്നൽ ജനറേറ്റർ എന്തെന്നാൽ ഒരു ഫങ്ക്ഷൻ ജനറേറ്റർ മാത്രമാണ് അവസാനത്തെ 2 അധ്യയനത്തിൽ നമ്മൾ കണ്ടതാണ് എന്താണ് ഒരു ഫങ്ക്ഷൻ ജനറേറ്റർ എന്ന് എന്താണ് ഓസ്സിലോസ്കോപ്പ് എന്നും എങ്ങനെ വോൾടേജ് അളക്കാമെന്നും അത്കൊണ്ട് കൊടുക്കുന്ന ലോഡിനെ അനുസരിച് ഓപ്പറേഷണൽ ഔട്ട്പുട് ന്റെ അമ്പ്ലിഫീർ ലെ സിഗ്നൽമാറുന്നു ഇത്രെയൊക്കെയാണ് ഔട്ട്പുട് ഇമ്പ്പെടാൻസ് നെ പറ്റി ഇനി നമുക്ക് അടുത്ത സ്ലൈഡ് ലേക്ക് പോകാം നിങ്ങളുടെ ബയാസ് കറന്റ് ന്റെ ഫലങ്ങളെ പറ്റി ബയാസ് കറന്റ് ന്റെ ഫലങ്ങളെ പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു അത്പോലെതന്നെ എന്താണ് ബയാസ് കറന്റ് എന്നും എങ്ങനെ അത് ഉപയോഗിക്കാം എന്നും നമുക്ക് ബയാസ് കറന്റ് ന്റെ ഫലങ്ങളെ പറ്റി പഠിക്കാം ഇപ്പോ നമ്മൾ ഒരു നോൺ ഇൻവെർട്ടിങ് അമ്പ്ലിഫീർ എടുക്കുക ആണെങ്കിൽ എന്താണ് നോൺ ഇൻവെർട്ടിങ് അമ്പ്ലിഫീർ എന്ന് നമുക്ക് അറിയാം 1 മെഗാ ohm ഒള്ള ഒരു സോഴ്സ് ഇമ്പ്പെടാൻസ് നിന്ന് എടുക്കുകുകയാണെങ്കിൽIB സമം 10 nanoampere ആണെങ്കിൽ അതിൽ അധികമായി ഒരു 10 മില്യവോൾട് തെറ്റുണ്ടാകും ഇത് മനസിലാക്കാൻ എളുപ്പമാണല്ലേ ഈ തെറ്റിന്റെ അളവ് ഒരു സിസ്റ്റത്തിലും നിസ്സാരമല്ല ഇപ്പോൾ ബയാസ് കറന്റ് ആണ് ഓപ്പറേഷണൽ അമ്പ്ലിഫീർ ന്റെ പ്രശ്നം എന്തെന്നാൽ അത് പുറത്തുള്ള ഇമ്പ്പെടാൻസ് വഴി ഒഴുകുകയും സിസ്റ്റം ത്തിന്റെ തെറ്റ് കൂട്ടുന്നതിനായി വോൾട്ടേജ് ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നു എങ്ങനെ നമുക്ക് ഈ തെറ്റ് കുറയ്ക്കാം അതിനായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ബയാസ് കറന്റ് എന്നാണ് ഇപ്പോ ഡിസൈൻ ചെയ്യുന്ന ആൾ IB യെ പറ്റി മറന്നുപോയാൽ നമ്മുടെ സർക്യൂട്ട് ശരിയായിട്ട് ജോലി ചെയ്യില്ല അതുകൊണ്ട് നമുക്ക് വിശദമായി നോക്കാം എന്താണ് ബയാസ് കറന്റ് എന്നും എന്താണ് ഇൻപുട് ഓഫസറ്റ് കറന്റ് ഉം ഇൻപുട് ബയാസ് കറണ്ടും ആദ്യം നമുക്ക് എന്താണ് ഇൻപുട് ബയാസ് കറന്റ് എന്ന് നോക്കാം നിങ്ങൾക് സർക്യൂട്ട് മനസിലായല്ലോ അല്ലെ ഇനി നമുക്ക് വിശദമായി നോക്കാം ഒരു ഐഡിയൽ ഓപ്പറേഷണൽ അമ്പ്ലിഫീർ ന്റെ സ്വർണ നിയമങ്ങളെ പറ്റി നമുക്ക് അറിയാം അല്ലെ അതായത് ഇൻപുട് ടെർമിനലുകളിലേക് എന്താണ് കറന്റ് ഒഴുകുന്നില്ല എന്ന് ഓപ്പറേഷണൽഅമ്പ്ലിഫീർനു ഇവിടെ ചെറിയ ഒരു തെറ്റ് ഉണ്ട് ഓപ്പറേഷണൽ അമ്പ്ലിഫീർൻറെ ഇൻപുട് കറന്റ് എന്ന് പറയുന്നത് 10 പവർ മൈനസ് 6 മുതൽ മൈനസ് 14 വരെ ആണ് കൂടുതൽ അമ്പ്ലിഫീർ നും എങ്ങനെ ആണ് ദിഫ്ഫെരെന്റ്റ്യൽ അമ്പ്ലിഫീർൻറെ ഇൻപുട് വോൾടേജ് ഉപയോഗിക്കുന്നത് ദിഫ്ഫെരെന്റ്റ്യൽ അമ്പ്ലിഫീർൻറെ 2 ട്രാൻസിസ്റ്റർ കളും ശരിയായിട്ട് വേണം ബയാസ് ചെയ്യാൻ പക്ഷെ യഥാർത്ഥത്തിൽ അത്രേം കൃത്യമായി ബയാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത് നമുക്ക് അത് ഒന്നുകൂടി നോക്കാം ഈ അമ്പ്ലിഫീർ ന്റെ ഇൻപുട് വോൾടേജ് മൈനസ് 6 മുതൽ മൈനസ് 10 എന്നാ ഓർഡറിലാണ് എന്നിരുന്നാലും കൂടുതൽ അമ്പ്ലിഫീർകളും ദിഫ്ഫെരെന്റ്റ്യൽ അമ്പ്ലിഫീർ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ ദിഫ്ഫെരെന്റ്റ്യൽ അമ്പ്ലിഫീർ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ എന്താണ് രണ്ട് ട്രാൻസിസ്റ്റർ കളും വെക്തമായി യോജിച്ചിരിക്കണം യോജിച്ചിട്ടില്ല എങ്കിൽ ഔട്ട്പുട് ഇൽ ചില വ്യത്യസങ്ങൾ കാണും അപ്പോ ട്രാൻസിസ്റ്റർ ചേർന്നില്ല എങ്കിൽ നമുക്ക് ശരിയായ രീതിൽ ദിഫ്ഫെരെന്റ്റ്യൽ അമ്പ്ലിഫീർ ഉപയോഗിക്കാൻ പറ്റില്ല അതിനു നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ട്രാൻസിറ്റട് കളെ ചേർക്കാൻ വേണ്ടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ മറ്റൊരു വഴിയുണ്ട് നമ്മുടെ ഇൻപുട് ടെർമിനേൽസ് അതായത് ബെയിസ് ടെർമിനേൽസ് ഇതിലേ രണ്ട് ബയാസ് കറന്റ് IB1 ആൻഡ് IB2 ഉപയോഗികാം ഈ 2 ട്രാൻസിസ്റ്റർ കളുടെ ബെയിസ് ടെർമിനൽ ആയ ഇൻപുട് ടെർമിനൽ കളെ നോക്കിക്കേ നമ്മൾ ദിഫ്ഫെരെന്റ്റ്യൽ അമ്പ്ലിഫീർ നെ ഓപ്പറേഷണൽ അമ്പ്ലിഫീർമായി കണ്ടാൽ അവിടെ ട്രാൻസിസ്റ്റർസ് ഉണ്ട് ഈ ട്രാൻസിസ്റ്റർസ് ബയാസ് കറന്റ് ആയ ഒരു ചെറിയ DC കറന്റ് നെ ബെയിസ് ടെർമിനേളിൽ കൂടി കടത്തിവിടുന്നു ഈ ചെറിയ ബയാസ് കറന്റ് നെ നമുക്ക് IB1 എന്നും IB2 എന്നും വിളികാം എന്തുകൊണ്ട് IB1ഉം IB2ഉം എന്തെന്നാൽ ഈ ദിഫ്ഫെരെന്റ്റ്യൽ അമ്പ്ലിഫീർ ഇൽ നമുക്ക് 2 വ്യത്യസ്തമായ ട്രാൻസിസ്റ്റർ ആണ് ഉള്ളത് ഇനി എങ്ങനെ നിങ്ങൾക് ഇൻപുട് ബയാസ് കറന്റ്ണ് ഒരു വിശദീകരണം കൊടുകാം 2 ഇൻപുട് ടെർമിനൽകളെ ഒരേ വോൾടേജ് ലെവലിൽ ബയാസ് ചെയ്താൽ അതായത് ഓപ്പറേഷണൽ അമ്പ്ലിഫീർ ബാലൻസ്ഡ് ആണെങ്കിൽ അതിലേക് ഒഴുകുന്ന കരണ്ടിനെ വിളിച്ച പേരാണ് ഇൻപുട് ബയാസ് കറന്റ് നിങ്ങളുടെ ആംപ്ലിഫയർ നെ നിങ്ങൾ ബാലൻസ് ചെയ്യുമ്പോൾ ചെറിയ ഒരു കറന്റ് ഇൻപുട് ടെർമിനൽ ലേക്ക് ഒഴുകുന്നത് നിങ്ങൾക് കാണാം ഈ ഇൻപുട് ടെർമിനൽ ലേക്ക് ഒഴുകുന്ന കറണ്ടാണ് ഇൻപുട് ബയാസ് കറന്റ് ചിലപ്പോൾ പരീക്ഷണം ചെയ്യാതെ ഇത് മനസിലാകുന്നത് ബുദ്ധിമുട്ടാണ് എങ്ങനെ ഇൻപുട് ബയാസ് കറന്റ് കണ്ടുപിടിക്കാം എന്നുള്ള പരീക്ഷണം നമുക്ക് ചെയ്യാം 2 ഇൻപുട് ഇലെ 2 ബയാസ് കറന്റ് ഉം വ്യത്യസതമാണ് അത്കൊണ്ട് തന്ന ഉത്പാദകൻ ഒരു ശരാശരി ഇൻപുട് കറന്റ് ആണ് നിർദ്ദേശിക്കുന്നത് ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ IB1 ന്റെയും IB2 ന്റെയും വിലകളെ കൂട്ടിയിട്ടട് 2 കൊണ്ട് ഹരിക്കാം അത്കൊണ്ട് നമുക്ക് പെട്ടന്ന് ഒന്ന് നോക്കാം എന്താണ് ഇൻപുട് ബയാസ് കറന്റ് എന്ന് 2 ട്രാൻസിസ്റ്റർ കളുടെ ചേർച്ചയില്ലായ്മ ആണ് ഇൻപുട് ബയാസ് കറന്റ് എന്ന് നമുക്ക് അറിയാം ഈ 2 ബയാസ്കറന്റ് കളും എന്താണ് ഒന്നല്ല അല്ലെ അത്കൊണ്ടാണ് നമുക്ക് ഓപ്പറേഷണൽ അമ്പലഫിർ കിട്ടുമ്പോൾ അതിൻറെ ഉത്പാദകൻ നമുക്ക് ഇൻപുട് ബയാസ് കറന്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല തരുന്നത് IB1 ന്റെയും IB2 ന്റെയും വിലകൾ കൂട്ടിയിട്ട് അവയെ 2 കൊണ്ട് ഹരിക്കുക ഇതാണ് നിങ്ങൾ ഓർക്കേണ്ട സമവാക്യം ഓർമിക്കാൻ എളുപ്പം അല്ലെ ഇപ്പോ ഞാൻ ഇൻപുട് ബയാസ് കറന്റ്എന്നുപറഞ്ഞാൽ അതേപോലെ തന്നെ ഔട്ട്പുട് ബിയസ്കറണ്ടും ഉണ്ട് ഇൻപുട് ബയാസ് കറന്റ്ലേ ക്ക്പോകും മുൻപേ നമുക്ക് പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻപുട് ബയാസ് കറന്റ്നെ പറ്റി പറയാം നമുക്ക് ഇൻപുട് ബയാസ് കറന്റ് വച്ച തുടങ്ങാം എന്നിട്ട് നമുക്ക് വേറെ സവിശേഷതകളിലേക് പോകാം ആദ്യം നമുക്ക് ഇൻപുട് ബയാസ് കറന്റ്ന്റെ പരീക്ഷണം പൂർത്തിയാക്കാം അത്കൊണ്ട് ഞാൻ നിങ്ങൾ അവസാനത്തെ അധ്യായത്തിൽ കണ്ടിട്ടുള്ള എന്റെ അസിസ്റ്റന്റ് സീതറാം നെ വിളിക്കുകയാണ് സർക്യൂട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ എങ്ങനെയാണ് അദ്ദേഹം ഓപ്പറേഷണൽ ആംപ്ലിഫയർ മേശയിൽ ഉള്ള സാധങ്ങളുമായി കണക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതൊക്കെ എന്താണ് നിങ്ങളുടെ ഫങ്ക്ഷൻ ജനറേറ്റർ DC സപ്ലൈ ലൈനിയർ DC റെഗുലേറ്റഡ് സപ്ലൈ ഓസ്സിലോസ്കോപ്പ് ഡിജിറ്റൽ ഓസ്സിലോസ്കോപ്പ് അല്ലെ സ്ലൈഡ് ഇൽ കണ്ടതുപോലെ നിങ്ങക്ക്ൾ വേണ്ടി അദ്ദേഹം റെസിസ്റ്റർസ്സും ഓപ്പറേഷണൽ അമ്പ്ലിഫീർ ഉം കണക്ട് ചെയ്യുന്നതാണ് സ്ലൈഡ്യിൽ പെട്ടന്ന് ഒന്ന് നോക്കിയാൽ നമുക്ക് രണ്ട് റെസിസ്റ്റർസ് കാണാം അല്ലെ അത്കൊണ്ട് ഓപ്പറേഷണൽ അമ്പ്ലിഫീർന് എന്താണ് ഇൻപുട് ബയാസ് കറന്റ് എന്ന് മനസിലാക്കാൻ ഉള്ള പരീക്ഷണം നമ്മൾ ചെയ്യാൻ പോകുകയാണ് അദ്ദേഹം 741 ആണ് ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പാണ് എങ്ങനെ ഈ സർക്യൂട്ട് കണക്ട് ചെയ്യണം എന്നും എങ്ങനെ ഇതിന്റെ സവിശേഷതകൾ അളക്ക്കണം എന്നും നമുക്ക് നോകാം അദ്ദേഹം സർക്യൂട്ട് റിപ്പയർ ചെയ്യുന്നതുവരെ നമുക്ക് ഈ സ്ലൈഡ് നോക്കാം ഈ സ്ലൈഡ് ഇൻപുട് ബയാസ് കറണ്ടും ഓഫസറ്റ് കറണ്ടും കാണിക്കുന്നു ഇപ്പോ നമുക്ക് ഇൻപുട് ബയാസ് കറന്റ് നോക്കാം എന്നിട്ട് ഇൻപുട് ഓഫസറ്റ് കറന്റ് എന്നിട്ട് നമുക്ക് ഈ പട്ട്ടികയിലേക്ക് തിരിച്ച് വരാം ഇവിടെ നമുക്ക് ഇൻപുട്ബയാസ് കറന്റാണ് അളക്കേണ്ടത് അത് ഇതാണ് ഇൻപുട് ബയാസ് കറന്റ്ന്റെ പരീക്ഷണം എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്ന പട്ടിക ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾ സർക്യൂട്ട് കണക്ട് ചെയ്യുക എന്തായാലും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇൽ ഓപ്പറേഷണൽ അമ്പ്ലിഫീറും DC സപ്ലൈയോട് കൂടിയ റെസിസ്റ്റോറുകളും കാണും അപ്പോ നിങ്ങൾക് കണക്ഷൻ എളുപ്പമല്ലേ നിങ്ങൾക് ഒരു മൾട്ടിമേറ്റെരം വേണം ഒരു DC പവർസ്പ്ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക് ഇൻപുട് ബയാസ് കറന്റ് പെട്ടന്ന് കണ്ടുപിടിച്ചുകൂടെ ഇത് നിങ്ങൾക് വീട്ടിൽ വച്ചു വേണമെങ്കിലും ചെയ്യാം ഒരു എളുപ്പമുള്ള പരീക്ഷണം ആണ് ഇത് ഉയർന്ന സാങ്കേതിക വിദ്യായോ പ്രത്യേകമായുള്ള സൌകര്യമോ ആവശ്യമില്ല ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച ഇൻവെർട്ടിങ് ടെർമിനൽ ലെ DC വോൾടേജ് കണ്ടുപിടിക്കാം എന്നിട്ട് പട്ടികയിൽ രേഖപെടുത്താം ഒരു ടെർമിനൽ ഇൻവെർട്ടിങ് ഉം മറ്റേത് നോൺ ഇൻവെർട്ടിങ് ഉം ആണ് നോൺ ഇൻവെർട്ടിങ് ടെർമിനൽ ലെ DC വോൾടേജ് ആണ് V നമുക്ക് നോൺ ഇൻവെർട്ടിങ് ടെർമിനൽ ലെ DC വോൾടേജ് കണ്ടുപിടിക്കണം എന്നിട്ട് അതിവിടെ കൊടുക്കണം എന്നിട്ട് നമുക്ക് Ib കണ്ടുപിടിക്കാം Ib എന്നാൽ V220k Ib ആണെങ്കിൽ vb ഇവിടെ Ib ഉം ഇവിടെ Ib ഉം അത്കൊണ്ട് V ഭാഗം 220k Ib ഉം Ib ഉം നമുക്ക് ഇൻപുട് ബയാസ് കറന്റ്ന്റെ സമവാക്യം അറിയാം IB|IB IB |2 അല്ലെ ഈ പരീക്ഷണത്തിൽ ഇതേ സർക്യൂട്ടിനെ നമുക്ക് ബ്രെഡിബോര്ഡമായി ബന്ധിപ്പികാം എന്നിട്ട് നമുക്ക് സ്ക്രീൻലേക്ക് തിരിച്ചു വരാം ഇവിടെ നിങ്ങൾ എന്താണ് കാണുന്നത് ബയാസ് വോൾടേജ് ഇവിടെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ചുവന്ന പിൻ ഉം കറുത്ത പിൻ ഉം കാണുന്നില്ലേ നടുക്ക് ചുവന്ന പിൻ ഉം വലതുഭാഗത്ത് പച്ച പിൻ ഉം ഇവിടെ നടുക്ക് നമ്മൾ 15 വോൾടേജ് കൊടുക്കുന്ന്നു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ലേക്ക് അങ്ങനെ നമ്മൾ 2 റെസിസ്റ്റർ കണക്ട് ചെയ്തു നിങ്ങൾ കാണുന്നില്ലേ ഈ രണ്ട് റെസിസ്റ്റർ കളെ നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർന്റെ ഇൻവെർട്ടിങ് ഉം നോൺ ഇൻവെർട്ടിങ് ഉം ടെർമിനലുകളിലേക് ബന്ധിപ്പിക്കുന്നു എന്നിട്ട് നമുക്ക് ഇൻവെർട്ടിങ് ടെർമിനലിലെ യും നോൺ ഇൻവെർട്ടിങ് ടെർമിനലിലെ യും വോൾടേജ് അളക്കാം അപ്പോൾ എന്താണ് ഇൻവെർട്ടിങ് ടെർമിനലിലെ വോൾടേജ് എന്താണ് നോൺ ഇൻവെർട്ടിങ് ടെർമിനലിലെ നമുക്ക് DC വോൾടേജ് ഇൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച ഇൻവെർട്ടിങ് ടെർമിനൽ ലെ കണ്ടുപിടിക്കാം ഇപ്പോ നിങ്ങൾക് മനസിലായി കാണും ഓപ്പറേഷണൽ അമ്പ്ലിഫീർ എടുക്കുമ്പോൾ ഇവിടെ ഞാൻ കാണിച്ച തരാം ഒരു ചെറിയ ഡോട്ട് കാണുന്നുണ്ടോ ഈ ഡോട്ട് ന്റെ അടുത്തേക് നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഇതാണ് പിൻ നമ്പർ 1 മനസിലാക്കാൻ എളുപ്പമല്ലേ ഇതാണ് പിൻ നമ്പർ 8 12345678 എന്നിങ്ങനെ IC യിൽ നിന്ന് ബ്രെഡിബോര്ഡിലേക് ബന്ധപ്പെടുത്തുമ്പോൾ ഏത് പിൻ ഏതാണെന്നും ഇതാണ് പിൻ നമ്പർ 2 എന്നും നമുക്ക് മനസിലാകും അദ്ദേഹം 741 എന്ന ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ബ്രെഡിബോര്ഡമായി കണക്റ്റുചെയ്തു ഇൻവെർട്ടിങ് നോൺ ഇൻവെർട്ടിങ് ഉം റെസിസ്റ്റർസ് ഉം കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നോൺ ഇൻവെർട്ടിങ് ലെ വോൾടേജ് കണ്ടുപിടിക്കാൻ പോകുകയാണ് നോൺ ഇൻവെർട്ടിങ് ടെർമിനൽ ലെ വോൾടേജ് 0 1 മില്യവോൾട് ഇൻവെർട്ടിങ് ടെർമിനൽ ലെ 0 അങ്ങനെ നമുക്ക് രണ്ട് വിലകൾ ഉണ്ടല്ലേ നമുക്ക് സ്ക്രീൻലേക് തിരിച്ചു പോകാം എന്താണ് നമ്മൾ ഇൻവെർട്ടിങ് ടെർമിനേളിൽ കണ്ടുപിടിച്ചത് 1 മില്യവോൾട് അല്ലെ നോൺ ഇൻവെർട്ടിങ്ലോ 0 മില്യവോൾട് അല്ലെ അവിടെ നിന്ന് നമുക്ക് Ib എന്ന സമവാക്യത്തിൽ കൊടുക്കാം അല്ലെ Ib ന്റെ സ്ഥാനത് 0 അല്ലെ അത്പോലെ തന്നെ Ib ണ് തുല്യം 0 1 മില്യവോൾട് ഭാഗം 22 0 k അല്ലെ എത്രയായിരിക്കും നിങ്ങളുടെ ഇൻപുട് ബയാസ് കറന്റ് കിട്ടിയോ ഒന്നുകൂടി നിങ്ങൾ ഈ കളത്തിൽ ശ്രദ്ധിക്കുക എന്താ നിങ്ങൾ കണ്ടെത്തിയത് സർക്യൂട്ട് കണക്ട് ചെയ്തപ്പോളുള്ള വോൾടേജും കറന്റ്റും നമ്മൾ കണ്ടുപിടിച്ചു 220k റെസിസ്റ്റർസ് നിങ്ങൾ ഇൻവെർട്ടിങ്ലേക്കും നോൺ ഇൻവെർട്ടിങ്ലേക്കും കണക്ട് ചെയ്തപ്പോൾ ഈ സർക്യൂട്ട് ബ്രെഡ് ബോർഡിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ Vcc അപ്ലൈ ചെയ്തല്ലേ കൂടാതെ മൈനസ് Vcc യെ അല്ലെങ്കിൽ Vcc യെ പിൻ 7 ഇലും 4 ഇലും കൊടുത്തു അല്ലെ എന്നിട്ട് നമ്മൾ റെസിസ്റ്റർ നെ ഗ്രൌണ്ട് ചെയ്തു ഇപ്പോ നമ്മൾ വോൾടേജ് നെ ഇൻവെർട്ടിങ് ടെർമിനൽ എന്നും നോൺ ഇൻവെർട്ടിങ് ടെർമിനൽ എന്നും അളന്നു ഇവിടെ നിന്ന് നമുക്ക് കളത്തിൽ എഴുതാം നോൺ ഇൻവെർട്ടിങ് ടെർമിനലിൽ അളന്ന വോൾടേജ് എത്ര എന്നും ടെർമിനലിൽ അളന്ന വോൾടേജ് എത്ര എന്നും എന്നിട്ട് നിങ്ങളുടെ സമവാക്യം Ib യിൽ കൊടുക്കാവുന്നതാണ് അവിടെ നിന്ന് നിങ്ങൾക് Ia യുടെ വില കിട്ടും നമുക്ക് പറയാം Ia യുടെ വില x എന്ന് അങ്ങനെ എങ്കിൽ ഈ ഇൻവെർട്ടിങ് ടെർമിനൽ വോൾട്ടേജിൽ നിന്ന് നിങ്ങൾക് Ia കിട്ടും നമുക്ക് പറയാം അത് y ക്ക് സമം ആണെന്ന് അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ Ib ഇൻപുട് ബയാസ് കറന്റ്നെ നമുക്ക് ഇങ്ങനെ എഴുതാം IBxy 2 ഇങ്ങനെ ആണ് നമ്മൾ ഇൻപുട് ബയാസ് കറന്റ്നെ അളക്കുന്നെ എളുപ്പമല്ലേ ഇനി അടുത്ത അദ്ധ്യായത്തിൽ നമുക്ക് എങ്ങനെ ഇൻപുട് ഓഫസറ്റ് കറന്റ് നെ അളക്കാം എന്ന് പഠിക്കാം ഇപ്പോൾ നമുക്ക് ഇവിടെ വച്ചു നിർത്താം